ബയോ റിയാക്ടറുകളിലെ ഈ mooc ലേക്ക് സ്വാഗതം ഇത് 4 ആഴ്ച വ്യാപിച്ചു കിടക്കുന്ന mooc ന്റെ 10 ലെക്ചർസാണ് ഈ mooc ന് ഈ ലെക്ചർസ് ഉണ്ടാകും കൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ചില അസൈൻമെന്റുകളും ഉണ്ടാകും ഇതുകൂടാതെ ചില ന്യൂമെറിക് പ്രോബ്ലെംസ് അതുപോലെ തോട്ട് ബേസ്ഡ് പ്രോബ്ലെംസും നമ്മൾ ക്ലാസ്സിൽ ചർച്ചചെയ്യുകയും ചെയ്യും അടുത്ത ക്ലാസിൽ ഇതിന്റെ സൊല്യൂഷൻസ് നമ്മൾ പരിശോധിക്കും ഈ കോഴ്സിന്റെ ഓർഗനൈസേഷൻ ഒരുപക്ഷേ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ കണ്ടെത്തിയേക്കില്ല എന്നിരുന്നാലും രണ്ട് പുസ്തകങ്ങൾ ഉപയോഗപ്രദമാകും അത് നിങ്ങൾക് റഫറൻസ് ആയി ഉപയോഗിക്കാം ഷുലറും കാർഗിയും ആണ് കോഴ്സ് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഫയലുകളിലൊന്നിൽ ഞാൻ വിശദാംശങ്ങൾ നൽകും അതൊരു നല്ല പുസ്തകമാണ് കൂടാതെ ഒരു പഴയ പുസ്തകം ഉണ്ട് വളരെ പഴയത് 86 അത് ബെയ്ലി ആൻഡ് ഒല്ലിസ് ആണ് ഇത് ഒരു നല്ല പുസ്തകമാണ് അതു പക്ഷെ ഡേറ്റഡ് ആണ് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ആമുഖമായിരിക്കും ആദ്യ ലെക്ചർ ഒരു ആമുഖമായിരിക്കും നമുക്ക് കാൻസറിനെ പറ്റി ചിന്തിക്കാം നമുക്ക് കാൻസറിൽ നിന്ന് ആരംഭിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് കാൻസർ എന്നത് ഒരു പ്രധാന രോഗം ആയി അറിയപ്പെടുന്നു വളരെക്കാലമായി ഇത് ഒരു പ്രധാന രോഗമാണ് പതിറ്റാണ്ടുകളായിരിക്കാം എന്നിട്ടും അത് പൂർണ്ണമായും ജയിക്കാൻ ആയിട്ടില്ല ക്യാൻസറിനെ ചികിത്സിക്കുന്നതിലും ക്യാൻസർ നിർണ്ണയിക്കുന്നതിലും വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനെ പൂർണ്ണമായും മറികടന്നിട്ടില്ല അത് ഇന്നും ഒരു പ്രധാന രോഗമാണ് എന്താണ് ക്യാൻസർ വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കോശങ്ങൾക്കു അതിന്റെ ജോലി കഴിഞ്ഞ ശേഷം സ്വയം നശിക്കാൻ കഴിയാതെ വരുക അത് സംഭവിക്കുമ്പോളാണ് കാൻസർ സംഭവിക്കുന്നതു അല്ലെങ്കിൽ കാൻസർ സംഭവിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള മികച്ച ഉദാഹരണമാണ് ഇത് നമ്മുടെ കൈ നോക്കുക ആണെകിൽ അതായത് ഒരു കൈ ഒരു ഭ്രൂണത്തിൽ തുടങ്ങി മാസ്സ് കൊണ്ട് മുഴുവൻ നിറഞ്ഞ ഒന്ന് പിന്നെ ഇവിടെയുള്ള കോശങ്ങൾ നശിക്കാൻ തുടങ്ങി അതാണ് അക്കങ്ങൾക്ക് കാരണമായത് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടത്തെ കോശങ്ങൾ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തു അതാണ് നമുക്ക് ഈ അക്കങ്ങൾ നൽകിയത് അവ പ്രവർത്തനക്ഷമമാണ് അതിനാൽ കോശനാശം വികസന പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ് ശരീരത്തിലെ പുനരുജ്ജീവന പ്രക്രിയ തുടങ്ങിയവ അത് പ്രവർത്തനക്ഷമമല്ലാത്തത് ആകുകയും അത് കോശങ്ങളെ തുടർന്നു ജീവിപ്പിക്കുകയും തുടർന്ന് ഇത് ക്യാൻസറിന് കാരണമാകുന്നു കാൻസർ അപകടകരമാകുന്നത് എന്തുകൊണ്ട് അവിടെയുള്ളത് വെറും കോശങ്ങൾ മാത്രമാണ് നശിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട കോശങ്ങൾ ഇത് നമ്മളെ എന്തുകൊണ്ട് അലട്ടുന്നു കാരണം അവയവങ്ങളുടെയും സംയുക്തകോശകളുടെയും നിർണായക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനാൽ ശരീരത്തിലെ അത്തരം ധാരാളം കോശങ്ങൾ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ശ്വാസകോശം എടുക്കാം അവിടെ ശ്വാസകോശ കോശങ്ങൾ ക്യാൻസറായി മാറുന്നു അവ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങുന്നു മാത്രമല്ല അവ ശ്വാസകോശത്തിൽ സംഭവിക്കുന്ന വാതക കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ജീവൻ നിലനിർത്തുന്നതിനും മറ്റും പ്രധാനമാണ് ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒരുപക്ഷേ കരൾ ഒരുപക്ഷേ വൃക്ക ഇവിടെയെല്ലാം നശിക്കാൻ വിസമ്മതിക്കുന്നതും തുടർന്നും വളരുന്നതും ആയ കോശങ്ങളുണ്ടെങ്കിൽ അത് അവയവങ്ങളുടെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ആത്യന്തികമായി ലളിതമായ അർത്ഥത്തിൽ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവിടെ മറ്റ് സങ്കീർണതകളും ഉണ്ട് എന്നാൽ ഇത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ വീണ്ടും നേരായ ചിന്താഗതിയിൽ കാൻസറിന്റെ ചികിത്സ ക്ക് കാൻസർ കോശങ്ങൾ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അതിനെ എങ്ങനെ നശിപ്പിക്കും നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നു കാൻസർ മരുന്നുകൾ അങ്ങനെയൊരു ചികിത്സയെ നമ്മൾ കീമോതെറാപ്പി എന്ന് വിളിക്കുന്നു നമുക്ക് റേഡിയേഷൻ ഉപയോഗിക്കാം ആ ചികിത്സയെ റേഡിയോതെറാപ്പി എന്നും വിളിക്കുന്നു അത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ എന്നാൽ ഈ ചികിത്സ നിങ്ങൾക് അറിയാമലോ ഇതുപോലെ നമ്മൾ മരുന്ന് എടുക്കുന്നത് കാൻസർ കോശങ്ങൾ നശിപ്പിക്കാനാണ് അത് പക്ഷെ ശരീരത്തിൽ പുറമേ ഉള്ള മറ്റ് സാധാരണ സെല്ലുകളെയും നശിപ്പിക്കുന്നു അത് പക്ഷെ അഭികാമ്യമലാത്ത കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും മറ്റ് വിവിധ പാർശ്വഫലങ്ങളിലേക്ക് നയിക്കുന്നു അതായത് മുടി കൊഴിച്ചിൽ അതുപോലെയുള്ളവ അങ്ങനെ അത് കില്ലിംഗ് ഏജന്റ്സ്നെ ടാർഗെറ്റ് ചെയ്യുന്നു കാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന മരുന്നുകൾ നേരിട്ട് കാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്നു മറ്റു സാധാരണ കോശങ്ങളിലെ പ്രഭാവം ചുരുങ്ങുന്നു ഈ മരുന്നുകൾ കാൻസർ കോശങ്ങളിലേക്ക് ടാർഗെറ്റുചെയ്യുന്നതിന് ഇപ്പോൾ ചില ക്യാൻസറുകൾക്കെങ്കിലും മോണോക്ലോണൽ ആന്റിബോഡികൾ അല്ലെങ്കിൽ എംഎബികൾ ഉപയോഗിക്കുന്നു ചില ക്യാൻസറുകൾക്ക് ഇത് വളരെ ഫലപ്രദമാണ് ഈ ആശയങ്ങൾ പതിറ്റാണ്ടുകളായി ആരംഭിച്ചു ഒരുപക്ഷേ ഒന്നര പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ കൂടുതൽ മുമ്പ് പിന്നീട് അവ ഫലപ്രാപ്തിയിലെത്തിയത് ഒരുപക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചില തരം കാൻസറുകൾക്കു നേരെ ഇത് വളരെ ഫലപ്രദമാണ് ഹൈബ്രിഡോമസ് എന്ന കോശങ്ങളാണ് മോണോക്ലോണൽ ആന്റിബോഡികൾ നിർമ്മിക്കുന്നത് ഹൈബ്രിഡോമ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹൈബ്രിഡ് ഓമാ ഇത് ഒരു തരം ആന്റിബോഡി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കോശത്തിന്റെ സംയോജനമാണ് അല്ലെങ്കിൽ മിശ്രിതമാണ് അതിനാൽ നമ്മൾ അവയെ മോണോക്ലോണൽ ആന്റിബോഡികൾ എന്നും നശിക്കാത്ത മറ്റൊരു തരം എന്നും വിളിക്കുന്നു ഇത് ഒരു കാൻസർ കോശമാണ് നമ്മൾ ഇതിനെ ഒരുമിച്ച് ഫ്യൂസ് ചെയുമ്പോൾ നമുക്ക് ഒരു തരം കോശം ലഭുക്കും അത് ഒരുതരം ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു മോണോക്ലോണൽ ആന്റിബോഡീസ് അതോടൊപ്പം അതിനു എന്നന്നേക്കും ജീവിപ്പിക്കും അത് ശരീരത്തിന് പുറത്തു ഉപയോഗപ്രദം ആകും അതായത് ഈ മോണോക്ലോണൽ ആന്റിബോഡികൾ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതു ക്യാന്സറസ് കോശങ്ങളെ ടാർഗറ്റ് ചെയുന്ന മരുന്നുകൾ ആണ് ഹ്യ്ബ്രിദൊമസ് തന്നെ വികസിപ്പിച്ചെടുത്തതു 70 ന്റെ പകുതിയിൽ കൊയ്ലർ ആൻഡ് മിൽസ്റ്റെൻ ആണ് അതോടൊപ്പം അതിന്ടെ പൊട്ടൻഷ്യൽ വേഗം മനസിലാക്കപ്പെട്ടു അത് വികസിപ്പിച്ചെടുത്തു അതോടൊപ്പം മോണോക്ലോണൽ ആന്റിബോഡികൾ 80 കളിലും വളരെ സാധരണമായി എന്റെ ചില ജോലികൾ ഡോക്ടറൽ ജോലി ഒരു ബയോ റിയാക്ടറിലെ മോണോക്ലോണൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ കാൻസർ ചികിൽസിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചില മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ് റിതുക്സിമാബ് ട്രസ്റ്റുസുമാബ് ബിഇവാസിസുമാബ് സെറ്റുക്സിമാബ് പാനിറ്റുമുമാബ് ഇപിലിമുമാബ് തുടങ്ങിയവ നമ്മൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇത് മോണോക്ലോണൽ ആന്റിബോഡിയെ സൂചിപ്പിക്കുന്ന MAb ൽ അവസാനിക്കുന്നു കൂടാതെ ഓരോന്നും ചിലതരം ക്യാൻസറുകൾക്കെതിരെ ഫലപ്രദമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഈ വെബ്സൈറ്റ് നോക്കാം ഞാൻ ഈ വെബ്സൈറ്റുകളെല്ലാം ഒരു പ്രത്യേക ഫയലിൽ ലിസ്റ്റുചെയ്യാനും നിങ്ങളുടെ കോഴ്സ് പേജിൽ ഇടാനും പോകുന്നു അതുവഴി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ എത്താൻ എളുപ്പമാണ് കോഴ്സിലുടനീളം ഈ വെബ്സൈറ്റുകളിൽ ചിലത് നമുക്ക് ആവശ്യമാണ് അതിനാൽ ആമുഖ മൊഡ്യൂളിൽ അതിനാൽ നമുക്ക് അവയെക്കുറിച്ച് വായിക്കാനും കൂടുതൽ ആഴത്തിൽ മനസിലാക്കാനും കഴിയും ആ വശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക കാരണം ഈ പ്രത്യേക കോഴ്സിൽ നമുക്കായ് അത്യാവശ്യമായ എല്ലാം കാണും അതിൽ ചിലതൊക്കെ ചിലർക്ക് വളരെ കൌതുകം ഉണ്ടാകുന്നവയാണ് അതിനാൽ നമുക്ക് പോയി അവയെക്കുറിച്ച് വായിക്കാനും നമ്മുടെ താൽപ്പര്യത്തെ അടിസ്ഥാനമാക്കി അവയെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും ഫയൽ ഇതുപോലെയാകും ഞാൻ നിങ്ങൾക് ഇപ്പോൾ തന്ന URL അതാണ് ആദ്യ URL കാൻസർ ചികിത്സക്ക് ഇത് ശുപാർശ ചെയുന്ന വെബ്സൈറ്റുകൾ വീഡിയോകൾ അവിടെ ചില വീഡിയോസ് കൂടി ഉണ്ടാകാം ഈ ഒരു വെബ്സൈറ്റ് കാൻസർ ചികിത്സയാണ് നോക്കുന്നത് ഇവിടെ നൽകിയ വിലാസമാണിത് നമുക്ക് ഈ ഫയൽ ഡൌൺലോഡ് ചെയ്ത് ഉചിതമായ ലിങ്കിൽ ക്ലിക്കുചെയ്യാം നമ്മൾ ഇവിടെ ക്ലിക്കുചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില നിയന്ത്രണങ്ങളോ അതുപോലെയോ ഉപയോഗിക്കേണ്ടത് ഉണ്ട് തുടർന്ന് നമ്മൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് അതിലൂടെ കാണും കാൻസർ ചികിത്സയ്ക്കുള്ള നല്ലൊരു വെബ്സൈറ്റാണിത് ലെക്ചറ്റിലൂടെ വിവിധ വെബ്സൈറ്റുകളിലൂടെ കടന്നുപോകുമ്പോൾ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യും മറ്റൊരു വെബ്സൈറ്റ് അവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കാൻസറിൽ നിന്ന് നമ്മുടെ ബയോറിയാക്ടേഴ്സ് കോഴ്സിലേക്ക് മടങ്ങാം ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണ് ഇവിടെ പ്രാധാന്യമുള്ള ചോദ്യം എന്നത് എങ്ങനെയാണ് മോണോക്ലോണൽ ആന്റിബോഡികൾ Mabs തെറാപ്പിക് വേണ്ടി കൂടുതൽ അളവിൽ ഉണ്ടാകാം എന്നതാണ് ഈ അളവ് നമ്മൾ ഹൈബ്രിഡൊമസിനു വേണ്ടി ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുക ആണെകിൽ തുടക്കത്തിൽ കുറച്ചു മാത്രം ആകും എന്നാൽ Mabs വേണ്ടിയുള്ള ഇന്നത്തെ ആവശ്യകത കൂടുതൽ ആണ് അതിനാൽ തെറാപ്പിക്ക് ആവശ്യമായ കൂടുതൽ അളവിൽ MAb എങ്ങനെ ഉത്പാദിപ്പിക്കും ഉത്തരം ചില ബയോപ്രോസസ്സ് ഉപയോഗിച്ച് എന്നതാണ് നമ്മൾ ഈ ബയോപ്രോസസ് സന്ദർശിക്കുന്നത് തുടരും നമുക്ക് റെഫർ ടൈം 1057 ഗിയർ ഒന്ന് സ്വിച്ച് ചെയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതര ദ്രാവക ഇന്ധനങ്ങൾക് ആവശ്യക്കാർ ഏറെയായിരുന്നു അല്ലെങ്കിൽ വളരെ ഹോട്ട് ആയിരുന്നു അതിനോട് ഇപ്പോഴും വലിയ താൽപ്പര്യമുണ്ട് അസംസ്കൃത എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന പെട്രോളിയത്തിനോ ഡീസലിനോ പകരം വയ്ക്കുന്ന ഇന്ധനങ്ങളാണ് ഇവയെല്ലാം അതിനുള്ള ന്യായികരണം അസംസ്കൃത എണ്ണ സ്രോതസ്സുകൾ തീർന്നുപോയിരിക്കുന്നു അതിനാൽ ഇതര ദ്രാവക ഇന്ധനങ്ങൾ ആവശ്യമാണ് എന്നതാണ് ദ്രാവക ഇന്ധനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഒരു വിമാനം ദ്രാവക ഇന്ധനം ഇല്ലാതെ പറക്കുന്നതു എങ്ങനെയാണ അത് ബുദ്ധിമുട്ടുണ്ട് കുറച്ചു സമയമെൻകിലും പരീക്ഷണാർത്ഥം വേറെ പല പകരംവെക്കലുകളും ഇന്നു ലഭ്യമാണ് ഒരുപക്ഷേ നമുക്ക് ഒരുപാട് ദ്രാവക ഇന്ധനങ്ങൾ വേണ്ടിവരും രണ്ട് ദ്രാവക ഇന്ധനങ്ങളുടെ ഉദാഹരണങ്ങൾ ആണ് ബയോ എത്തനോൾ അതുപോലെ ബയോ ഡീസൽ എത്തനോൾ ഇവയൊക്കെ നമുക്ക് അറിയാലോ C2H5OH അത് പല ലഹരി പാനീയങ്ങളിലും കാണപ്പെടുന്നു എന്നാൽ പരിശുദ്ധമായ രൂപത്തിൽ അത് പെട്രോൾ ആയി കൂട്ടി ചേർത്താൽ അല്ലെങ്കിൽ ഗ്യാസ് കലർത്തിയ പക്ഷം ഇത് ചില രാജ്യങ്ങളിൽ കാറുകൾ ഉപയോഗിക്കുന്നു അത് ഒരു വളരെ നല്ല ഇന്ധനമാണിത് എന്നാൽ നമുക്ക് എങ്ങനെ ബയോ എത്തനോൾ ലഭിക്കും ബയോ എത്തനോളിന്റെ ഉറവിടം ഒന്നുകിൽ കോർണ് അല്ലെൻകിൽ മറ്റു ചെടികളിൽ നിന്നുമുള്ള സ്രോദസ്സു ആണ് അത് നമുക്ക് എത്തനോൾ തരുന്നു ഉദാഹരണത്തിന് എത്തനോൾ ഉണ്ടാകാൻ കോൺ എങ്ങനെ എടുക്കും കാരണം കോണിൽ വേറെ പല സാധനകൾ കൂടി ഉണ്ട് അതിൽ എത്തനോൾ ഇല്ല അപ്പോൾ എങ്ങനെയാണ് എത്തനോൾ ആയിട്ടുള്ള കോൺ എടുക്കുന്നത് അത് ഒരു ബയോ ഫ്യുയൽ ആയി ഉപയോഗിക്കുന്നു ഇത് ഒരു നീണ്ട പ്രക്രിയ ആണ് ഇത് ബയോപ്രോസസ്സിൽ കൂടിയാണ് അതുപോലെ ബയോ ഡീസൽ ബയോ ഡീസൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നു ചെടി ഉറവിടങ്ങളിൽ നിന്നും റയിൽവേ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇത് ന്യായമായ ഒരു പരിധിയിൽ ഉപയോഗിക്കുന്നു ബയോ ഡീസൽ ഉൽപാദിപ്പിക്കുന്നതിന് നമുക്ക് മൈക്രോആൽഗെ എന്ന് വിളിക്കാവുന്ന ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നു കാരണം മൈക്രോആൽഗെ കൂട്ടിവെച്ച് അതിനെ നമ്മൾ ബയോ ഓയിൽ ആയി പരിവർത്തനം ചെയുന്നു അത് ഏകദേശം ക്രൂഡ് ഓയിലിന് തുല്യമാണ് ക്രൂഡ് ഓയിൽ പോലെ തന്നെ ആകില്ലെൻകിലും ഇതിനെ തുല്യമായി കണക്കാക്കുന്നു അതോടൊപ്പം ഈ ബയോ ഓയിൽ നമുക്ക് ബയോ ഡീസൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അതിനാൽ നമ്മൾ മൈക്രോആൽഗെ ഉപയോഗിക്കുന്നു ഇതൊരു ഉയർന്ന ജനറേഷനിൽ വരുന്ന ബയോ ഫ്യൂൽ ആണ് ബയോ ഡീസൽ പിന്നെ നമ്മൾ അസംസ്കൃത വസ്തുക്കൾ പരിവർത്തനം ചെയാനായി ഒരു ബയോ പ്രോസസ്സ് ഉപയോഗിക്കേണ്ടതുണ്ട് ചിലപ്പോൾ അതു വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മാത്രം ആകാം അതോടൊപ്പം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അതോടൊപ്പം ഫോട്ടോസിന്തസിസ് വഴി അതു ബയോ ഓയിൽ ആകുന്നു തുടർന്ന് പരിവർത്തനം നടത്തി അതിനെ ബയോ ഡീസൽ ആക്കുന്നു അതിനാൽ ഈ പ്രക്രിയയും ഒരു ബയോപ്രോസസ് ആണ് അതിനാൽ ബയോ ഇതെനോൾ ബയോ ഡീസൽ എന്നിങ്ങനെ ചില ഇതര ദ്രാവക ഇന്ധനങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിന് ബയോപ്രോസസുകൾ ആവശ്യമാണ് എത്തനോൾ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്ന ഈ ആനിമേഷൻ കാണൂ കോണിൽ നിന്നും എത്തനോൾ ഉണ്ടാക്കുന്നത് എങ്ങനെ അതല്ലെകിൽ മറ്റു സ്രോതസുകളിൽ നിന്നും അതുപോലെ ഇതാണ് എത്തനോളിൽ നിന്നും ഉണ്ടാകുന്ന കോൺ ഇതാണ് എത്തനോളിന്റെ സാധരണ ഉത്പാദനം അതോടൊപ്പം അതിന്റെ അനിമേഷൻ പിന്നെ ആൽഗെ തൊട്ട് ഫ്യൂൽ വരെ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയുന്നില്ലെൻകിൽ അല്ലെൻകിൽ നേരിട്ട് പ്രേസേന്റ്റേഷനിൽ നിന്നും ഉപയോഗിക്കാം അത് 4 5 ആണെന് തോന്നുന്നു ദയവുചെയ്ത് നിങ്ങൾ അതൊന്നു നോക്കു എത്തനോൾ ആനിമേഷൻ 3 ആണ് കോണിൽ നിന്നുമുള്ള എത്തനോൾ 4 ആണ് പിന്നെ അൽഗെ മുതൽ ഫ്യൂവൽ വരെ പട്ടികയിൽ 5 ആണ് നമുക്ക് ഈ സൈറ്റുകളിൽ കൂടി പോകാം ഇതൊക്കെ സാധാരണയായി കിട്ടുന്ന വീഡിയോകൾ ആണ് അതോടൊപ്പം ചില വിവരങ്ങൾ നല്ല വഴിയിൽ അറിയന്നു ഒരു ബോറടിപ്പികാത്ത വഴിയിലൂടെ അത് ഉപയോഗപ്രദമായേക്കും നമുക്ക് ഇവിടെ നമ്മുടെ പ്രേസേന്റ്റേഷനിലേക്കു മടങ്ങാം ബയോ എത്തനോൾ ബയോ ഡീസൽ ഉത്പാദനം ബയോ പ്രോസസ്സ് വഴി നടക്കുന്നു ഇവിടെ മറ്റൊരു സ്വിച്ച് ഉണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇൻസുലിനെ പറ്റി കേട്ടിട്ടുണ്ടാകുമലോ എന്താണ് ഇൻസുലിൻ പ്രമേഹത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത് വ്യാപകമായി ഉപയോഗികുന്ന പ്രമേഹത്തിന്റെ മരുന്ന് അതിൽ ഏത് തരത്തിലുള്ള തന്മാത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ ഒരു പ്രോട്ടീൻ എന്ന് വിളിക്കുന്നു ബയോ മോളിക്യൂളിലും മറ്റും നിങ്ങൾക്ക് കുറച്ച് പശ്ചാത്തലമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് ഒരുതരം ബയോ മോളിക്യൂളാണ് അമിനോ ആസിഡ് അമിനോ ആസിഡിന്റെ ഒരു പോളിമെർ ഒരു പ്രോട്ടീൻ ആണ് അതിനാൽ ഇൻസുലിൻ ഒരു ചെറിയ പ്രോട്ടീൻ ആണ് 1920 കളിലാണ് ഇത് കണ്ടെത്തിയത് വളരെക്കാലം മുമ്പ് പ്രമേഹത്തെ ചികിത്സിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന് ആളുകൾ ഉടൻ കണ്ടെത്തി ഇൻസുലിന്റെ ആദ്യ സ്രോദസ്സു പന്നിയുടെ ആമാശയം ആയിരുന്നു അതിന് ശേഷം ഏതാനും വർഷങ്ങൾ വരെയും ഏകദേശം 1980 വരെ അത് പന്നികളുടെ ആമാശയത്തിൽ നിന്ന് തന്നെ ആയിരുന്നു ലഭിക്കുന്നത് അക്കങ്ങൾ തികച്ചും അമ്പരപ്പിക്കുന്നതാണ് 800 മുതൽ 1000 കിലോ ആമായാശയം വേണ്ടി വരും ഒരു 100 ഗ്രാം ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ അത് വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് ലോകം മുഴുവനുമുള്ള വ്യാപകമായ ഇൻസുലിൻ ആവശ്യം കണക്കിലെടുക്ക ആണെകിൽ അതു വളരെ ചെറുതാണ് മാത്രമല്ല ആമാശയം ശരീരത്തിലെ ഒരു അവയവം മാത്രമാണ് അതിനാൽ മറ്റൊരു രീതിയും അറിയാത്തപ്പോൾ ഇൻസുലിൻ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ ഇൻസുലിനായി ഒരു ബയോപ്രോസസ്സ് ലഭ്യമായപ്പോൾ കാരണം ഇൻസുലിൻ ലഭിക്കുന്നത് എളുപ്പം ആയകാരണം ഇത് ഇൻസുലിന്റെ ചെലവ് 24 മടങ്ങ് കുറച്ചു അതോടൊപ്പം ഇതൊരു ബയോപ്രോസസ്സ് ആണ് നിങ്ങളുടെ ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന ഇൻസുലിന്റെ അടുത്ത വീഡിയോയാണിത് നിങ്ങൾക്ക് അത് പോയി നോക്കാവുന്നതാണ് അതായത് ഇൻസുലിന്റെ പ്രസക്തി അറിയുന്നതിനായി ഇൻസുലിന്റെ ഉൽപാദനം ഒരു ബയോപ്രോസസ്സിലൂടെ അറിയാനും അതുപോലെ ഉള്ളവയും ഇനി നമുക്ക് വീടിനടുത്തേക്ക് വരാം എങ്ങനെയാണ് നിങ്ങൾ തൈര് അല്ലെകിൽ യോഗ്ഹേർട് ഉണ്ടാകുന്നത് നിങ്ങൾ പാൽ എടുക്കുന്നു ഒരു പാത്രത്തിൽ വെച്ച് അത് ചൂടാക്കുകയും പിന്നീട് ചെറുതായി ചൂടുള്ള ഈ പാലിൽ കുറച്ച് പഴയ തൈര് ചേർത്ത് മാറ്റി വയ്ക്കുക ചില വൈദ്യുത മാർഗ്ഗങ്ങളിലൂടെ ഈ പാത്രം 37 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുന്ന തൈര് നിർമ്മാതാക്കളുമുണ്ട് ഇങ്ങനെയുള്ള തൈര് നിർമ്മാതാക്കൾ 2 മണിക്കൂർ അല്ലെൻകിൽ അതിൽ കൂടുതൽ രാത്രി എടുത്തു വെയ്ക്കുക ആണെൻകിൽ പുറത്ത് താപനില അതിനു സഹായകരം ആകുമ്പോൾ തൈര് നല്ലപോലെ ഉണ്ടായിട്ടുണ്ടാകും ഈ കോഴ്സിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഞാൻ പരിചയപ്പെടുതാം നിങ്ങൾ ആദ്യം എടുത്ത പാൽ അതിനെ നമുക്ക് ഇടത്തരം എന്ന് വിളിക്കാം പോഷകങ്ങൾ ഒരു പോഷക ചാറു പോഷക ചാറിലെ പോഷകങ്ങൾ ഉപയോഗിച്ച് ഇന്നോകുലം നമ്മൾ ചേർത്ത ചെറിയ അളവിലുള്ള തൈര് അതിൽ ഓർഗാനിസം അടങ്ങുന്ന ഇടത്തരം പോഷക ഉപയോഗപ്പെടുത്തി വളരുന്നു ഈ ഓർഗാനിസം വളരുമ്പോൾ ഈ പ്രത്യേകതരം ഓർഗാനിസത്തിനെ അവയെ ലാക്ടോബാസിലസ് എന്ന് വിളിക്കുന്നു അവ വളരുമ്പോൾ അവ ലാക്ടോ ആസിഡ് ഉണ്ടാകുന്നു ഒരു ആസിഡ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് പിഎച്ച് കുറയ്ക്കുന്നു ആസിഡിന്റെ നിയന്ത്രിത ഉത്പാദനം കാരണം അതായത് ഒരു ഉചിതമായ ഫാഷനിൽ അത് ആസിഡ് പിഎച്ച് കുറയ്ക്കുന്നു അതായത് പാലിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ സഹിതം ഒരു ഉചിതമായ വിധത്തിൽ അത് നടക്കുന്നു കെസിൻ കർഡിൽസ് എന്ന് വിളിക്കുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോടീൻ അങ്ങനെയാണ് നമുക്ക് തൈര് ലഭിക്കുന്നത് ഒരു ഉചിതമായ രീതിയിൽ നിങ്ങൾക്കറിയാമോ രുചി പോലും ഈ പ്രക്രിയയിൽ ഉചിതമാക്കുന്നത് അത് ചെയ്യുന്ന രീതി കാരണം നിങ്ങൾക്ക് തൈര് കഴിക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ തൈര് ഉണ്ടാക്കുന്നതും ഒരു ബയോപ്രോസസ് ആണ് നിങ്ങൾക്ക് ഒരു പാത്രം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഇടത്തരം മാർഗം അടങ്ങിയിരിക്കുന്നു തുടർന്ന് നമുക്ക് അതിൽ തൈര് ചേർക്കാം അതിനാൽ നമ്മൾ അതിൽ ഇന്നോകുലം ചേർത്തു ഇന്നോകുലത്തിൽ ഉള്ള കോശങ്ങൾ കൂടുതൽ കോശങ്ങൾ ഉണ്ടാക്കുക അത് ലാക്റ്റിക് ആസിഡ് എന്ന ഉൽപ്പന്നം ഉണ്ടാകുന്നു ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പാലിനെ പലതും ചെയ്ത് തൈര് നൽകുന്നു അങ്ങനെ ലളിതമായി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ബയോപ്രോസസ്സ് ആണ് അതിനാൽ തൈര് ഉണ്ടാക്കുന്നതും ഒരു ബയോപ്രോസസ് ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഒരു ബയോപ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ബയോപ്രോസസിന്റെ ഒരു അവലോകനമാണ് ബയോപ്രോസസിന് രണ്ട് പ്രധാന വശങ്ങളുണ്ട് അതിൽ ഒന്ന് ബയോറിയാക്ടർ വശം അതിനെ അപ്പ്സ്ട്രീം വശം എന്നും പറയുന്നു ഇവിടെ അധികം വരുന്ന വശം അതിനെ ഡൌൺസ്ട്രീം വശം എന്നും പറയുന്നു ബയോറിയാക്ടർ ഇവിടെ ഇങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് പിന്നീട് നമ്മൾ ഇത് വിശദമായി കാണും ഇതിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉദാഹരണത്തിന് അതു തൈര്ന്റെ കേസിൽ പാൽ ആകാം ഇത് ബയോറിയാക്ടറിൽ പ്രവേശിക്കുന്നു ബയോറിയാക്ടറിൽ നമുക്ക് താല്പര്യമുള്ള മൈക്രോഓർഗാനിസം അടങ്ങിയിരിക്കുന്നു അതോടൊപ്പം പോഷകവും സഹിതം അതായത് നമ്മൾ തൈര് നിർമ്മാണത്തിന്റെ കേസിൽ കണ്ടപോലെ പോഷകങ്ങൾ തൈര് ആയിട്ട് പരിവർത്തനം ചെയപ്പെടുന്നു അതുപോലെ ലാക്ടോബാസിലസ് ആണ് അതിനെ തൈര് ആക്കി മാറ്റുന്നത് അതു അല്ലെകിൽ അതിൽ വെറുമൊരു എൻസൈമ് മാത്രം ആകാം അതു ചില എൻസൈമാറ്റിക് പരിവർത്തനം നടത്തുന്നു ഈ പ്രക്രിയ നടന്നതിന് ശേഷം ഈ പ്രക്രിയ നടക്കാൻ പല വഴിയുണ്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പിന്നീട്ട് കാണും ഈ പ്രക്രിയ നടന്നതിനു ശേഷം എന്താണ് ബയോറിയാക്ടറുടെ പുറത്തു വരുന്നതു ബയോറിയാക്ടറിൽ നിന്ന് ഉൽപാദിപ്പിച്ചത് നമുക്ക് താല്പര്യം ഉള്ള ഉൽപനം ആണ് മൈക്രോഓർഗാനിസവും മറ്റ് വസ്തുക്കളും നാമെല്ലാവരും ഉൽപ്പന്നത്തിൽ മാത്രം താൽപ്പര്യപ്പെടുന്നു അതിനാൽ ഉൽപനത്തിൽ നിന്നും മറ്റു വസ്തുക്കൾ നീക്കം ചെയുകയും അത് മാത്രമാകുക്കയും വേണം ഇതാണ് നമ്മൾ ഡൌൺസ്ട്രീമിംഗ് എന്ന പേരിൽ ചെയ്യുന്നത് ഡൌൺസ്ട്രീമിംഗ് പ്രക്രിയയിൽ ഒരുപാട് പടികൾ ഉണ്ട് ബയോപ്രോസസിലെ 95 ശതമാനം ഡൌൺസ്ട്രീമിങ് ആണ് അതിനാൽ കൂടുതൽ ഡൌൺസ്ട്രീമിങ്ങിൽ ആണ് അതിനാൽ ഇതിന്റെ ഒകെ അവസാനം നമുക്ക് ശുദ്ധമായ ഉൽപനം കിട്ടുന്നു അതിനാൽ ഇതൊരു ബയോപ്രോസസാണ് ഈ കോഴ്സ് പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പ്സ്ട്രീം വശത്തിനു ആണ് അല്ലെങ്കിൽ ബയോറിയാക്ടർ വശത്തിന് ഡൌൺസ്ട്രീമിങ് പ്രക്രിയയും തീർച്ചയായും വളരെ പ്രധാനമാണ് എന്നാൽ ഈ കോഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഉപകാരപ്രദമായ് നമ്മൾ ചെയുന്ന എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു അതായത് ബയോറിയാക്ടർ അതുപോലെ അപ്പ്സ്ട്രീം കാര്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ mooc നെ നമ്മൾ ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നത് മുൻപത്തെ സ്ലൈഡിൽ നിന്ന് ബയോറിയാക്ടർ എന്നത് ബയോപ്രോസസ്സിന്റെ ഹൃദയം ആണെന്നും ബയോപ്രോസസ്സ് നിലനിൽക്കാൻ നിർബന്ധമാണ് എന്നത് വ്യക്തമാണ് ഇപ്പോൾ നമുക്ക് ചില സാധാരണ ബയോ റിയാക്ടർ തരങ്ങൾ നോക്കാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില തരം ബയോ റിയാക്ടറുകൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്തിനെ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ ഇത് ബയോ വ്യവസായത്തിലെ ജോലി ചെയുന്ന കുതിരയെ പോലെയാണ് ഒരുപാട് വ്യവസായങ്ങളിൽ ഈ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഉപയോഗിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു ടാങ്കാണ് ഇത് ഈ ദീർഘചതുരമായി ഇവിടെ പ്രതിനിധീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഉരുണ്ടതാണ് ഒരു മേശ മുകളിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ സാധനം പോലെ ഒരു 1 2 ലിറ്റർ റിയാക്ടർ അല്ലെങ്കിൽ ഒരു ലാബ് ബെഞ്ചിൽ ഇരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ 15 ലിറ്റർ റിയാക്ടർ വ്യവസായത്തിൽ അത് 1 ലക്ഷം ലിറ്റർ വരെ ഉൾകൊള്ളൂന്ന വലിയ സ്ഥലം ആകാം കുറച്ച് ലക്ഷം ലിറ്റർ തുടങ്ങിയവ സ്റ്റിർഡ് ടാങ്ക് ഇവയെല്ലാം ഫലപ്രദമായ ഒന്നാണ് എന്നാൽ അവയുടെ വലുപ്പങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഈ സ്റ്റിർഡ് ടാങ്ക് റിയാക്ടറുകൾക് എല്ലാം തന്നെ ഒരു സ്റ്റിറർ അത് ബയോറിയാക്ടറിലെ വസ്തു ഇളക്കാൻ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് അതിനെ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നത് ഇത് ഏത് ബയോ റിയാക്ടറും ഒരു ഉപകരണമാണ് ഇവിടെ വിവിധ ഉപകരണങ്ങളും വളരെയധികം നിയന്ത്രിത പരിതസ്ഥിതിയും ഇവിടെയുണ്ട് ഉപയോഗിക്കുന്ന സാധാരണ ഉപകരണങ്ങൾ താപനില അളക്കാൻ ആവശ്യമായവയാണ് ഒരു തെർമോമീറ്റർ ആർടിഡി ഉപകരണം ഉണ്ട് അത് ബയോ റിയാക്റ്റർ ഉള്ളടക്കങ്ങളുടെ താപനില അളക്കുന്നു ഡു എന്ന ഒന്ന് ഉണ്ട് ഈ ഡു ഡിസോൾവ്ഡ് ഓക്സിജനെ സൂചിപ്പിക്കുന്നു അത് ഒരു പ്രധാന പാരാമീറ്ററായി മാറുന്നു പ്രത്യേകിച്ചും നമ്മൾ ചിലതരം മൈക്രോഓർഗാനിസത്തിനെ ബയോറി യാക്ടറിൽ ഉപയോഗിക്കുന്നു പിഎച്ച് നിയന്ത്രിത അളവിൽ പ്രധാനപ്പെട്ടൊരു ചേരുവക ആണ് ഒരുപാട് ബയോപ്രൊസസ്സുകളോ ബയോ റിയാക്ഷനുകളോ ഒരു നേരിയ പി എച്ച് റേഞ്ചിൽ ആണ് നടക്കുന്നത് ഇവിടെ വായുസഞ്ചാരം സംഭവിക്കുന്നു വായു ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കോഴ്സിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു അതുപോലെ അതിന്റെ മീഡയവും നമ്മൾ സംസാരിച്ചു നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം സ്റ്റിർഡ് ടാങ്ക് എന്നത് ഒരു പാത്രം ആണ് അതൊരു ബയോറിയാക്ടർ ആണ് യഥാർത്ഥ റിയാക്ടറുകൾ എന്ന നിലയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബയോ റിയാക്ടറുകൾ അല്ലെങ്കിൽ ഫാക്ടറികൾ എവിടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബയോ റിയാക്ടറിലെ സെല്ലുകൾ നമ്മൾ സംസാരിച്ച എത്തനോൾ ലാക്റ്റിക് ആസിഡ് എംഎബികൾ ഇൻസുലിൻ അല്ലെങ്കിൽ ബയോ ഓയിൽ എന്നിവയാകാം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സൂക്ഷ്മ കോശങ്ങൾ കൊണ്ടാണ് ഈ കോശങ്ങളുടെ വലിപ്പം 2 മൈക്രോൺനും 10 മൈക്രോണിനും ഇടയ്ക്ക് ആയിരിക്കാം അതിനാൽ ഈ കോശങ്ങളെ കൽച്ചർ എന്ന് വിളിക്കപ്പെടുന്നു ഇത് യഥാർത്ഥ ഫാക്ടറികളിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ് നമ്മൾ എപ്പോഴെല്ലാം ബയോ റിയാക്ടറുകൾ നോക്കുമ്പോഴും ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കോഴ്സിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ ബയോ റിയാക്ടറെ ഈ പാത്രമായി നോക്കുകയും ഈ പാത്രത്തിനു ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇത് പിൻഭാഗത്തു ആകും ചെയ്യുന്നത് പിന്നീട് കോഴ്സ്ന്റെ ബാക്കി ഭാഗത്തോട്ട് നീങ്ങുന്നു നമ്മൾ നമ്മുടെ കുറച്ചു ശ്രദ്ധ എങ്ങനെ ഓപ്പറേറ്റ് ചെയുന്നുയെന്നു അല്ലെങ്കിൽ ഈ കോശങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അടിസ്ഥാനമാക്കി തന്ത്രങ്ങൾ നോക്കുന്നു അതാണ് കൂടുതൽ അർത്ഥവത്താക്കുന്നത് കാരണം ഈ കോശങ്ങൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യഥാർത്ഥ ഫാക്ടറികളാണ് അതിനാൽ നമുക്ക് ബയോറിയാക്ടർ ഫലപ്രദമാകുന്നതിനു ഒരു ആശയം ആവശ്യമാണ് അതിനെ ഒരു കറുത്ത പെട്ടിയായി നോക്കുക ആണെകിൽ അത് പല സാഹചര്യങ്ങളിലും സഹായകരമാകില്ല അതിനാൽ അത് ഒരു സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്റ്ററാണ് രണ്ടാമത്തെ തരം രണ്ടാമത്തെ സാധാരണ തരം ആണ് എയർ ലിഫ്റ്റ് ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നത് ഒരു എയർ ലിഫ്റ്റ് ബയോ റിയാക്ടറിന്റെ ചില പ്രധാന സവിശേഷതകൾ ഈ സ്കീമാറ്റിക്കിൽ കാണിക്കുന്നു ഒരു സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും എയർ ലിഫ്റ്റ് ബയോറിയാക്ടറും തമ്മിലുള്ള വ്യത്യാസം സ്റ്റിറർ ഇല്ല എന്നതാണ് എന്നിരുന്നാലും ബയോറിയാക്ടറുടെ ചാറു നമ്മൾ അജിറ്റേഷനിൽ നിർത്തണം അപ്പോൾ മാത്രം ബയോറിയാക്ടർ ശരിയായി പ്രവർത്തിക്കു അജിറ്റേഷന്ന് മിക്സ്ചർ സ്വഭാവം ഇവിടെ എവിടെയെങ്കിലും പമ്പ് ചെയ്യപ്പെടുന്നത് വായുവിലൂടെയാണ് എയർ ഈ വഴി ഉയരുന്നു അത് അകത്തേക്കു എടുക്കുന്നു ഈ റിയാക്റ്ററിൻറെ ഉള്ളിൽ ഒരു സിലിണ്ടർ ഉണ്ട് എയർ ഈ വഴി ഉയരുമ്പോൾ അത് കോശങ്ങൾ സഹിതം ആണ് വഹിക്കുന്നത് പിന്നെ അത് കറങ്ങുന്നു ഇതൊരു സിലിണ്ടറാണ് നിങ്ങൾക്ക് ഇത് ദൃശ്യവൽക്കരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പുറത്തെ സിലിണ്ടർ ആണ് അതുകൊണ്ട് എയർ ഈ വഴി ഉയർന്നു വരുമ്പോൾ അതും തീവ്രമായി വരുമ്പോൾ അതിനു കോശങ്ങളെ സസ്പെൻഷനിൽ നിലനിർത്താൻ കഴിയും അതോടൊപ്പം റിയാക്ടർ പ്രവർത്തിക്കുന്നു ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് ലിക്വിഡ് ലെവലാണ് അതിനാൽ ഇത് ഒരു എയർ ലിഫ്റ്റ് ബയോ റിയാക്ടറാണ് ഇതിനു ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറേ അപേക്ഷിച്ചു ചില ബയോ റിയാക്ടറുകളെക്കുറിച്ച് കൂടുതൽ നമ്മൾ പരിശോധിക്കും മൂന്നാമത്തെ തരം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹികുന്നത് ഒരു പാക്കഡ് ബെഡ് ബയോറിയാക്ടർ ആണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ് ഉണ്ട് അത് നിറഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട് അത് തുടർച്ചയുള്ളത് ആയിരിക്കാം ഈ പാക്കഡ് ബെഡ് ബയോറിയാക്ടറുകൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ബയോറിയാക്ഷൻ നടക്കുന്ന സ്ഥലം ഇവിടെ ആണ് റിയാക്ടന്റ് ഉൽപന്നം ആകുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്ന ഒരു വീഡിയോയാണിത് പാക്കഡ് ബെഡ് അതുപോലെ ഫ്ലൂഡിലൈസ്ഡ് ബെഡ് Refer time 3013 ഇതാണ് ഫ്ലൂഡിലൈസ്ഡ് ബെഡ് ഞാൻ അടുത്തതിലേക്ക് വരാം പാക്കഡ് ബെഡ് ഒരു സ്റ്റേഷണറി ബെഡ് മാത്രമാണ് അതിൽ ഈ ഓർഗാനിസം ഉണ്ട് ഇത് റിയാക്ടന്റുകളെ ഉൽപ്പന്നങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നു ഫ്ലൂഡിലൈസ്ഡ് ബെഡ് പാക്കഡ് ബെഡ്ന്റെ ഒരു വകഭേദമാണ് അതിന്റെ ഈ ഭാഗം ദ്രാവകമാക്കും ഫ്ലൂഡിലൈസ്ഡ് എന്നാൽ അർത്ഥമാകുന്നത് ദ്രാവകം പോലെ ബെഡ് നിശ്ചലമാകില്ല അത് ചുറ്റിക്കറങ്ങുകയും ചാടുകയും അതുപോലെ ഒകെ ചെയ്യും അത് ബയോ റിയാക്ടറുകളുടെ പ്രവർത്തനത്തിൽ ആവശ്യമുള്ള ചില വശങ്ങൾ കൊണ്ടുവരുന്നു ചില സാഹചര്യങ്ങളിൽ ദ്രാവകവൽക്കരിച്ച ബെഡ് ബയോ റിയാക്ടർ ഉപയോഗിക്കുന്നു ഒരു പായ്ക്ക്ഡ് ബെഡ് ബയോ റിയാക്റ്റർ ജലചികിത്സയിലും മറ്റും സാധാരണയായി ഉപയോഗിക്കുന്നു ഇത് ഒരു മണൽ കിടക്കയായിരിക്കാം അതിലൂടെ ചികിത്സക്കായുള്ള വെള്ളം ഒഴുകുന്നു ഇവിടെ നിന്ന് ഒഴുകുന്നത് ശുദ്ധമായ വെള്ളമാണ് മറ്റൊരു തരം ബയോ റിയാക്ടറിനെ സോളിഡ് സ്റ്റേറ്റ് ബയോറിയാക്ടറുകൾ എന്ന് വിളിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ അവിടെ സാധാരണ യാതൊരു ദ്രാവകവും ഇല്ല ഇത് എല്ലാം സോളിഡ് ആണ് ഇത് ഉപയോഗപ്രദമായ പദാർത്ഥങ്ങൾ ഉത്പാദിപിക്കാൻ ഉപയോഗിക്കാൻ കഴിയും പറയുക ആണെകിൽ എൻസൈമുകൾ അങ്ങനെ ഉള്ളവ പ്രകൃതിദത്തമായ വസ്തുക്കളിൽ നിന്നും എല്ലാം സോളിഡ് ആയിട്ടുള്ളവ അതിനെ നമുക്ക് മുറിക്കാം നുറുക്കാം അങ്ങനെ ഒരു പാത്രത്തിൽ വെക്കാം മിക്കവാറും പുറത്ത് ഒരു വലിയ ആല അത് ഉചിതമായ അവസ്ഥ കൈകാര്യം ചെയ്യുന്നു അതുപോലെ ഓർഗാനിസത്തിനെ ഉചിതമായ അളവിൽ സോളിഡ് ആയി ചേർക്കുന്നു ഓർഗാനിസം സബ്സ്ട്രേറ്റ്നെ ആവശ്യമുള്ള ഉൽപ്പന്നമായി മാറ്റുന്നു അതിനാൽ അങ്ങനെയൊരു റിയാക്ടറിനെ സോളിഡ് സ്റ്റേറ്റ് ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നു അതാണ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നത് അത് വ്യവസായങ്ങളിൽ ഒരു ഘട്ടത്തിൽ വളരെ അധികം ഉപയോഗിച്ചിരുന്നു അത് വളരെ ഉപയോഗപ്രദമായി ഉൽപ്പാദിപ്പിക്കുന്നു എൻസൈം പോലെ അത് ഇപ്പോഴും ഉപയോഗിക്കാം ഈ സോളിഡ് സ്റ്റേറ്റ് ബയോ റിയാക്ടറുകളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു വീഡിയോയാണിത് നിങ്ങൾ ഇത് കാണാൻ ആഗ്രഹിച്ചേക്കാം എന്താണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ചില വ്യവസായ പ്രയോഗങ്ങളിൽ കൂടാതെ ചില ലാബ് പ്രയോഗങ്ങളിലും കൂടുതൽ വ്യവസായ പ്രയോഗങ്ങളിൽ കൂടുതൽ ഉപകാരം ഒറ്റ ഉപയോഗത്തിനു പറ്റിയ ബയോറിയാക്ടറുകൾ ആണ് ഉപയോഗിക്കുക എന്നിട്ട് അത് പുറത്തേക്ക് എറിയുക ഇത് മൂല്യനിർണ്ണയ പ്രക്രിയയിൽ ഇതിന് കാര്യമായ ഗുണങ്ങളുണ്ട് കാരണം വാലിഡേഷൻ പ്രക്രിയ കർശനമാണ് അതുപോലെ ആളുകൾക്കു ഒരു പ്രതിയുത്പാദന രീതിയിൽ വിവിധ വശങ്ങൾ സ്ഥാപിക്കുകയും വേണം അങ്ങനെ ഉത്പാദനത്തിന് അംഗീകാരം നൽകുന്നു പരിശോധനകൾക്ക് ശേഷമാണ് അനുമതി നൽകുന്നത് അങ്ങനെ നമുക്ക് ബയോറിയാക്ടർ ഉപയോഗിക്കാനും കളയാനും കഴിയുമെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഗണ്യമായി ലളിതമാകും അതിനാൽ ഒറ്റ ഉപയോഗ ബയോറിയാക്ടറുകൾ വളരെ പ്രചാരമുള്ളവയാണ് അതേ സ്റ്റിർഡ് ടാങ്ക് ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുകയും അത് ഒരു ഡിസ്പോസിബിൾ റിയാക്ടറായി മാറുകയും ചെയ്യും ഇവയെല്ലാം അതേപടി തുടരുന്നു അതിന്റെ സൈസ് വരെ വലുത് ആകാം അതായത് നിങ്ങൾ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഉപയോഗിക്കുക ആണെകിൽ അതിനാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ബയോ റിയാക്ടർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഉചിതമായ വസ്തുക്കൾക്ക് പകരം നമുക്ക് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഗുണങ്ങളുണ്ട് പക്ഷേ ദോഷങ്ങളുമുണ്ട് ഈ വീഡിയോ ലിസ്റ്റുചെയ്യുന്ന ചില ദോഷങ്ങളുമുണ്ട് നമുക്ക് പോയി അത് പരിശോധിക്കാം അല്ലെകിൽ ഒരേ സമയം വേവ് ബയോറിയാക്ടർ എന്ന ബയോറിയാക്ടർ നിലവിൽ വരണം ഇതും നൽകിയിട്ടുണ്ട് അതേ വീഡിയോയിൽ തന്നെ ആണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് വേവ് ബയോറിയാക്ടർ എന്താണെന്നും നോക്കാം അത് വേറെ ഒന്നും അല്ല വെറും പ്ലാസ്റ്റിക് ബാഗുകൾ ആണ് അതൊരു വലിയ പ്ലാസ്റ്റിക് ബാഗ് ആകാം ഒരു 25 ലിറ്ററിലോ അതിൽ കൂടുതലോ ശേഷിയുള്ള വലിയ പ്ലാസ്റ്റിക് ബാഗുകളാകാം ഇത് കുറഞ്ഞ അളവിലുള്ള ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കാം അതുകൊണ്ട് ഡിസ്പോസിബിൾ വശം വാലിഡേഷൻ ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ പരിപാലനത്തിനും അവ അടിസ്ഥാനപരമായി പ്ലാസ്റ്റിക് ബാഗുകളാണ് അവ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ റോക്കറുകളിൽ സൂക്ഷിക്കുകയും ഉൽപാദനം അത്തരമൊരു അവസ്ഥയിൽ സംഭവിക്കുകയും ചെയ്യുന്നു അടുത്തതായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ബയോ റിയാക്ടറിനെ ഫോട്ടോ ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നു ഒരു ഫോട്ടോ ബയോറിയാക്ടർ എന്നാൽ അത് പ്രകാശം ഉപയോഗിക്കുന്നു എന്നാണ് എപ്പോഴാണ് നമുക്ക് വെളിച്ചം ആവശ്യമായി വരുന്നത് എപ്പോഴെല്ലാം ഒരു ഓർഗാനിസത്തിനു വെളിച്ചം ആവശ്യമാണ് വെളിച്ചം ആവശ്യമുള്ള ഒന്നിനെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്ന് വിളിക്കുന്നു ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം അവയെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ ബയോറിയാക്ടർ എന്ന ഒന്ന് ഉപയോഗിക്കേണ്ടത് ഉണ്ട് മൈക്രോആൽഗ ബയോ ഡീസൽ ഉൽപാദനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെന്ന് ഓർക്കുക ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ് മൈക്രോആൽഗ അവ വായുവിലെ കാർബൺ ഡൈഓക്സൈഡിനെ ബയോ ഇന്ധനമാക്കി മാറ്റുന്നു അതിനാലാണ് ഇത് ഒരു കാർബൺ ന്യൂട്രൽ തരത്തിലുള്ള സാഹചര്യമായി കണക്കാക്കുന്നത് അതായത് അത് ഭൂമിയിൽ നിന്ന് ഒരു കാർബണും എടുക്കുന്നില്ല അത് വായുവിൽ നിന്നു കാർബൺ എടുക്കും ബയോ ഇന്ധനമായി പരിവർത്തനം ചെയുന്നു അതോടൊപ്പം അതു ആകാശത്തേക്കു തിരികെ ലഭിക്കുന്നു അത് ഇപ്പോഴും ഒരു നിഷ്പക്ഷ തരത്തിലുള്ള സാഹചര്യമാണ് അന്തരീക്ഷത്തിൽ ഭൂമിയിൽ നിന്നും കൂടുതൽ കാർബൺ ഡൈഓക്സൈഡ് ഒന്നും ഇല്ല അതിനാൽ ബയോ ഓയിൽ ഉൽപാദിപ്പിക്കുന്നതിനായി ഒരു മൈക്രോഅൽഗെയെ വളർത്തുമ്പോൾ നമ്മൾ ഫോട്ടോ ബയോറിയാക്ടർ എന്ന് വിളിക്കുന്നു ഈ പ്രക്രിയ നേരെയുള്ളതും ലളിതവുമാണ് ഈ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് എല്ലാം തന്നെ അറിയാം ഇതാണ് ചാറു വെച്ചിരിക്കുന്ന പാത്രം ഈ പാത്രത്തിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് ഈ ഫോട്ടോ വിഭാഗത്തിലേക്ക് നയിക്കുന്നു അടുത്ത ചിത്രം ഫോട്ടോ വിഭാഗം കുറച്ചുകൂടി മികച്ചതായി കാണിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ ഫോട്ടോ കുറച്ചൂടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ഇത് ഈ കോണിൽ നിന്നാണ് രണ്ടാമത്തെ ഫോട്ടോ ഈ കോണിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേ റിയാക്ടറാണ് ഇത് നമ്മുടെ ലാബിൽ നിന്ന് എടുത്തതാണ് നമ്മൾ ഒരു ഫോട്ടോ ബയോറിയാക്ടർ ഉപയോഗിക്കുന്നു നമ്മൾ മൈക്രോഅൽഗയിൽ ചില കാര്യങ്ങൾ ചെയ്തു അതിനാൽ ഈ പാത്രത്തിൽ അതിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് ഫോട്ടോ വിഭാഗത്തിലേക്ക് പോകുന്നു Refer time 3714 ഓർഗാനിസത്തിനു ഇവിടെ നിന്നും വെളിച്ചം ലഭിക്കുന്നു അതായത് അവർ ഫോട്ടോ റിയാക്ഷനിൽ ഇരിക്കുമ്പോൾ അത് ഗ്ലാസ് കുഴലുകളിൽ നിർമിച്ച ഒന്നാണ് പിന്നീട് അവർ പാത്രത്തിലേക്കു തിരിച്ചു പോകുന്നു അതോടൊപ്പം അത് നിരന്തരം നടക്കുന്നു അതിനാൽ ഇതാണ് ഫോട്ടോബയോറിയാക്ടർ നമുക്ക് മൈക്രോ ആൽഗ ഉപയോഗിച്ച് ഉള്ള ബയോ ഡീസൽ അതുപോലെ ബയോ ഓയിൽ ഉത്പാദനത്തിലേക്കു തിരിച്ചു വരാം ഈ പ്രക്രിയ വളരെ ലളിതം ആണ് നമ്മൾ മൈക്രോആൽഗ ഉണ്ടാക്കുന്നു മൈക്രോആൽഗ വായുവിൽ ഉള്ള കാർബൺ ഡയോക്സൈഡ് പരിവർത്തനം ചെയുന്നു അതോടൊപ്പം അതിന്റെ പ്രക്രിയയിൽ ലിപിഡ്സ് അല്ലെകിൽ ബയോ ഓയിൽ കൂട്ടി വെയ്ക്കുന്നു ലിപിഡ്സ് മൈക്രോആൽഗയുടെ ഉത്പാദനശേഷം പുറത്തു കിട്ടുന്നു അതായത് വെറും ഒരു അമർത്തലിൽ ഓയിൽ പുറത്തേക്കു ഒഴുകുന്നു പിന്നീട് അതിനെ എന്തിനു വേണ്ടിയും ഉപയോഗിക്കാം പ്രക്രിയ വളരെ ലളിതമാണ് എന്നാൽ ഈ റൂട്ടിൽ നിന്നും ബയോ ഓയലിന്റെ സാമ്പത്തിക ഉത്പാദനം സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രക്രിയ ഇന്നും ലോകം മുഴുവൻ ലഭ്യമല്ലാത്തതിനുള്ള കാരണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒഴികെ പക്ഷേ ഇത് വാണിജ്യപരമായി ലാഭകരമല്ല അതിനു ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ട് അതുപോലെ വെല്ലുവിളികളും ഒരുപാട് ഉണ്ട് അതിൽ ചിലത് ഈ കോഴ്സിൽ നമ്മൾ പറയും എന്നാൽ ആ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞൽ പിന്നെ അത് ഒരു സാമ്പത്തിക യാഥാർത്ഥ്യമാകും അതോടൊപ്പം ബയോ ഓയിലിനും ബയോ ഡീസലിനും അതുപോലെ മറ്റു പല ഉൽപ്പന്നങ്ങൾക്കും അത് വളരെ നല്ല ബദൽ സ്രോതസ്സ് ആകാം ഈ പ്രക്രിയയിൽ നിന്ന് ജെറ്റ് ഇന്ധനം വരെ നിർമ്മിക്കാം ഇതാണ് ഇവിടെയുള്ള പാത്രത്തിന്റെ സ്കീമാറ്റിക് അതുപോലെ ഇവിടെയുള്ള ഫോട്ടോ വിഭാഗം ഇത് വഴി കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി നമുക്ക് മനസിലാക്കാം ഇതിൽ മൈക്രോആൽഗേ അടങ്ങിയിരിക്കുന്നു അവരെ ഇവിടെ പുറത്തേക്കു വിടുന്നു ഫോട്ടോ വിഭാഗത്തിലെ ഗ്ലാസ് ട്യൂബുകളിലൂടെ അത് കൊണ്ടുപോകുന്നത് ഒരു പമ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ അവ പ്രകാശത്തിന് വിധേയമാവുകയും അവ തിരികെ വരികയും ബയോ ഓയിൽ ശേഖരിക്കുന്നതിനായി ഫോട്ടോ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ എടുത്ത ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വീഡിയോയാണിത് ഞാൻ ഇവിടെ നമ്പർ 11 കരുതുന്നു ബയോറിയാക്ടർക്ക് മുൻപ് അത് ഒരു ആശയം നമുക്ക് തരും അതായത് ഒരു മൈക്രോആൽഗയിൽ നിന്ന് ബയോ ഓയിൽ എങ്ങനെ സാധ്യമാണ് ഒരു ബയോറിയാക്ടർ ആയി ബന്ധപ്പെട്ട ഒരു ബയോപ്രോസസ്സ് വഴി ഇവിടെ പലതരം ബയോറിയാക്ടർ ഉണ്ട് ഇവ എല്ലാം നോക്കി പോകുക സാധ്യമല്ല ബയോളജിക്കൽ റൂട്ടിലൂടെ ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധാരണ തരങ്ങളാണിവ അവയിൽ ചിലത് നമ്മൾ കണ്ടു അടുത്തതായി നമുക്ക് ബയോറിയാക്ടറുടെ പ്രവർത്തന മോഡുകൾ നോക്കാം അത്തരം റിയാക്ടറുകളിൽ പലതും സ്റ്റിർഡ് ടാങ്ക് എയർ ലിഫ്റ്റ് അതുപോലെ നമ്മൾ കണ്ട റിയാക്ടറുകളുടെ മറ്റ് തരങ്ങളും പാക്കഡ് ബെഡ് ഫ്ലൂയിഡിസ്ഡ് ബെഡ് തുടങ്ങിയവ അവ മൂന്നിൽ ഒരു മോഡിൽ പ്രവർത്തിക്കാം ആദ്യത്തേത് ഒരു ബാച്ച് ഓപ്പറേഷൻ ആണ് നമ്മൾ നേരത്തെ പരിഗണിച്ച അതേ സ്റ്റിർഡ് ടാങ്കാണിത് ഇത് ഇവിടെ ഒരു സ്റ്റിറർ ആണ് അത് ഇളക്കി കോശങ്ങളെ സസ്പെൻഷനിൽ സൂക്ഷിക്കുന്നു ഒരു സ്റ്റിർഡ് ടാങ്ക് എപ്പോഴാണ് ഒരു ബാച്ച് മോഡിൽ പ്രവർത്തിക്കുന്നത് എന്താണ് നടക്കുന്നത് നമ്മൾ ഇടത്തരം എല്ലാം അതിൽ ഇടുന്നു കോശങ്ങൾ ഇന്നോകുലം അതുപോലെ ഉള്ളവ തുടർന്ന് റിയാക്ഷൻ നടക്കുന്നു അതിനാൽ നമ്മൾ ബയോ ഉത്പന്നങ്ങൾ ഉണ്ടാകുന്നത് കാത്തുനിൽക്കുന്നു അവസാനം നമ്മൾ എലാം കൂടി ഡംപ് ചെയുന്നു എന്നിട്ട് കൂടുതൽ പ്രോസസ്സിംഗ് ആയി മുന്നോട്ടുപോകു ഡൌൺസ്ട്രീം പ്രോസസ്സിംഗ് നമ്മൾ വേർതിരിച്ച് ഉൽപന്നത്തെ മറ്റു വസ്തുക്കളിൽ നിന്നും പവിത്രികരിച്ചെടുക്കുന്നു അതിനാൽ ഒരു ഓപ്പറേഷൻ അതായത് ഇതുപോലെ എല്ലാം അകത്തു ഡംപ് ചെയ്തു പ്രക്രിയ പൂർത്തിയാകാൻ കാത്തിരുന്ന് പിന്നെ എല്ലാം പുറത്തു ഡംപ് ചെയ്തു ഇങ്ങനെയുള്ള പ്രക്രിയയെ ആണ് ബാച്ച് പ്രോസസ്സ് അല്ലെകിൽ ഒരു ബയോറിയാക്ടറുടെ ബാച്ച് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വ്യവസായത്തിലെ പല പ്രോസസ്സുകളും ബാച്ചാണ് ഇത് വളരെ ലളിതമാണ് താരതമ്യേന സംസാരിക്കുക ആണെകിൽ ബാച്ച് ബയോറിയാക്ടർ പ്രവർത്തിക്കുന്നത് അത് മറ്റു തരത്തിലുള്ള ബാച്ച് അപേക്ഷിച്ച് അതായത് മറ്റു ബയോറിയാക്ടർസ് അടുത്തത് ബയോറിയാക്ടറുടെ ഒരു നിരന്തരമായ ഓപ്പറേഷൻ ആണ് അതുപോലെ സ്റ്റിർഡ് ടാങ്ക് നമുക്ക് നിരന്തരമായ സബ്സ്ട്രേറ്റ് ഇന്പുട് ഉണ്ടാകും അതിനെ പോഷക ചാറു എന്നാണ് വിളിക്കുന്നത് അതിൽ കോശങ്ങൾ ഉണ്ടാകണമെന്നും ഇല്ല ഈ കോശങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം മാത്രമല്ല ബയോ റിയാക്ടറിൽ നിന്ന് നിരന്തരമായ ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു സമയം ക്രമീകരിക്കുന്നതിനാൽ ഉൽപ്പന്നം ഉചിതമായി നിർമ്മിക്കുകയും അത്തരമൊരു പ്രവർത്തനത്തെ കണ്ടിന്യൂസ് ഓപ്പറേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ പ്രക്രിയയിൽ കോശങ്ങളുടെ വളർച്ച ഉൽപന്ന രൂപീകരണം പോഷകങ്ങളുടെ ഒഴുക്ക് എന്നിവയുണ്ട് ഇത് ഒരേസമയം സംഭവിക്കും ആന്തരികവൽക്കരിക്കാൻ അത് പ്രധാനമാണ് ഒരു തുടർച്ചയായ പ്രവർത്തനം ഇത് എല്ലാ ഒരേസമയം സംഭവിക്കുമ്പോൾ ആന്തരികവൽക്കരണം ഉചിതമായി വരുന്നു അത് വിശകലനം ചെയ്യാൻ പിന്നെ അത് ഉപയോഗിക്കാനും മിക്കവാറും നമുക്ക് താല്പര്യം ഉള്ള ഒന്ന് രൂപകൽപന ചെയ്യാനും ഇവ 2ഉം തമ്മിലുള്ള അതായത് ബാച്ചിനും നിരന്തരം ആയതിനും ഇടയിൽ ഫെഡ് ബാച്ച് ഓപ്പറേഷൻ ഇത് രണ്ടിനും ഇടയിൽ ഉള്ളവ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ അത് ഇടവിട്ടുള്ള ഇൻപുട്ട് ആകാം ഇടവിട്ടുള്ള ഔട്ട്പുട്ട് ആകാം അല്ലെങ്കിൽ രണ്ടും ഉണ്ടാകാം നമുക്ക് കുറച്ച് ഇൻപുട്ടും കുറച്ച് ഔട്പുട്ടും ഉണ്ടായിരിക്കാം എന്താണ് അതുകൊണ്ട് ഞാൻ ഉദേശിച്ചത് നമ്മൾ ഒരു ബാച്ചിൽ ആകും തുടങ്ങുന്നത് പിന്നെ ചില കാരണങ്ങളാൽ പിന്നീട് ഒരുപക്ഷേ നമ്മൾ സബ്സ്ട്രേറ്റ് ചേർക്കുന്നു അത് ചിലപ്പോൾ ഇടവേളകൾ ആയിട്ട് ആകാം തുടർച്ചയായി അല്ല ഇടവേളകൾ ആകാം അതാണ് ഫെഡ് ബാച്ച് നമ്മൾ ചിലപ്പോൾ ഒന്നും നീക്കം ചെയ്തിട്ടുണ്ടാകില്ല അല്ലെകിൽ നിങ്ങൾക്ക് ചാറിന്റെ ചില ഭാഗം നീക്കം ചെയ്യാൻ പറ്റിയേക്കും അതായത് റിയാക്ടിങ് ചാറു അല്ലെകിൽ നമുക്ക് രണ്ടും ചെയ്യാൻ കഴിയും നമുക്ക് ഇടയ്ക്കിടെ ചേർക്കാനും ഇടയ്ക്കിടെ ഒഴിവാക്കാനും കഴിയും കൂടാതെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളെ ഫെഡ് ബാച്ച് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നു അതിന് വിവിധ കാരണങ്ങളുണ്ട് ഉദാഹരണത്തിനു കോശങ്ങൾ നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾക് വിഷാംശം ഉണ്ടാകാം ലളിതമായത് എത്തനോൾ ആണ് അത് വ്യവസായങ്ങളിൽ അധികം ഉണ്ടാക്കിയിരിക്കുന്നു ഏതാണ്ട് 10 ന് മുകളിലുള്ള എത്തനോൾ 16 ശതമാനം അല്ലെങ്കിൽ 18 ശതമാനം കോശങ്ങൾക്ക് വിഷമാണ് അത് ഇവിടെ പണിയാൻ അനുവദിക്കില്ല വളരെ കുറഞ്ഞ സാന്ദ്രതയിൽ ചെയ്തത് വിഷം ആകുന്നവയും ഉണ്ട് അതോടൊപ്പം അതിന്റെ വിഷാംശം കൈകാര്യം ചെയ്യാൻ ചാറിന്റെ ഒരു ഭാഗം നീക്കം ചെയ്ത് പുതിയ ചാറു ചേർക്കുന്നു അങ്ങനെ വിഷ ഉൽപ്പന്നം കേന്ദ്രീകരണം പരിശോദിക്കപ്പെടുന്നു ഇപ്പോൾ നമ്മൾ കണ്ട ബയോ റിയാക്ടറുകൾ സാധാരണ തരങ്ങൾ അത്തരം ബയോ റിയാക്ടറുകളുടെ പ്രവർത്തന രീതികൾ എന്നിവയായിരുന്നു അവ ചില ബയോ റിയാക്ടറുകൾ എല്ലാത്തരം ഓപ്പറേഷൻ മോഡുകൾക്കും അല്ലെങ്കിൽ മൂന്ന് ഓപ്പറേഷൻ മോഡുകൾക്കും ചെയ്തു കൊടുക്കുന്നു ബാച്ച് കണ്ടിന്യൂസ് ഫെഡ് ബാച്ചും അതെ സ്ഥാനത്ത് ചിലപ്പോൾ ഒരു പാക്കഡ് ബെഡ് ബയോറിയാക്ടർ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ബയോറിയാക്ടർ ആയിരിക്കും അത് പ്രവർത്തിക്കാൻ എളുപ്പമാകില്ല ചിലപ്പോൾ ഒരു ബാച്ച് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ എളുപ്പമായിരിക്കും സാധാരണഗതിയിൽ തുടർച്ചയായുള്ള പ്രവർത്തനം കൂടുതൽ ബുദ്ധിമുട്ടാണ് പല തവണ കൂടുതൽ ശ്രമം വേണ്ടിവരും ഒരു തുടർച്ചയായ പ്രവർത്തനത്തിനായി തുടർച്ചയായ ബാച്ച് തുടർച്ചയായ ബയോ റിയാക്ടർ എന്നിവ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ശ്രമം ആവശ്യമാണ് ഇനി നമുക്ക് മറ്റു ആശയങ്ങൾ നോക്കാം നമ്മൾ ഓർഗാനിസം ഉപയോഗിക്കുന്നു അതായത് മൈക്രോ ഓർഗാനിസം നമുക്ക് ആവശ്യമായ ഉൽപന്നം ഉണ്ടാകുന്നതിനു അതിനായി നമുക്ക് താല്പര്യം ഉള്ള ഓർഗാനിസം മാത്രം വായുവിൽ ഉണ്ടാകേണ്ട കാര്യമുള്ളൂ അതായത് ഉൽപന്നം ഉണ്ടാകാൻ എന്നിരുന്നാലും ഓർഗാനിസം എല്ലായിടത്തും ഉണ്ട് നമുക്കു ചുറ്റുമുള്ള ഈ മുറി ഈ വായു ബയോറിയാക്ടർ ഉപയോഗിക്കുന്ന സ്ഥാലത്ത് ആശുപത്രി മുറിയിൽ അങ്ങനെയുളവാ അതിൽ വായുവിൽ ഓർഗാനിസം നിരന്നിരിക്കുന്നു അതും കൂടുതൽ അളവിൽ അത് നല്ലതല്ല ഉദാഹരണത്തിന് നമ്മൾ പകർച്ചവ്യാധി വരുത്തുന്ന ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കയറണമെന്നു ആഗ്രഹിക്കുന്നില്ല ശരീരത്തിന് ചില പ്രതിരോധ സംവിധാനം ഉണ്ട് അത് അതിന്റെ ത്രീവാദ കുറച്ചേക്കാം പക്ഷെ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മളിൽ പലവർക്കും പകർച്ച വ്യാധികൾ ഉണ്ടാകുന്നത് അതായത് ശരീരത്തിന്റെ പ്രതികരണ സംവിധാനത്തിനു അത് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല കൂടുതൽ വിമർശനാത്മകമായി ഒരു വ്യക്തിക്ക് ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആ വ്യക്തിയുടെ ആന്തരികങ്ങൾ തുറന്നുകാട്ടപ്പെടുന്നു കൂടാതെ ഒന്നുകിൽ അവിടെ ചർമ്മമില്ല അല്ലെകിൽ ചർമ്മം ഒരു പ്രത്യേക ആവശ്യത്തിനായി വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു അതായത് ശസ്ത്രക്രിയയുടെ ഉദ്ദേശ്യത്തിനായി ത്വക്കിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ വായുവിൽ കൂടിയിരിക്കുന്ന ഓർഗാനിസം ഉണ്ടെങ്കിൽ അവയ്ക്ക് കയറാം അവ കയറുകയും അണുബാധ ഉണ്ടാകുകയും ചെയാം അതിനാൽ ശസ്ത്രക്രിയ നടക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ ഒരു ബയോ റിയാക്ടർ പരിസരം അല്ലെകിൽ ബയോ റിയാക്ടർ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക അതിൽ ഓർഗാനിസം ഉണ്ടാകാൻ പാടില്ല അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഓർഗാനിസം ചേർത്ത് ബയോറിയാക്ടറിൽ അത് മൾട്ടിപ്ലൈ ചെയുന്നു പിന്നെ നമുക്ക് താല്പര്യം ഉള്ള ഉൽപനം ഉണ്ടാകുന്നു അതിനാൽ ഒരു ക്ലീൻ സ്ലേറ്റിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം നമുക്ക് ചുറ്റുമുള്ള വായുവിൽ ഒരു മില്ലിക്ക് 10 പവർ 3 കോശങ്ങൾ അല്ലെങ്കിൽ 10 പവർ 4 കോശങ്ങൾ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഓർഗാനിസം ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ കയറാൻ നമ്മൾ ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് ആയിട്ട് ഇത് പ്രതേക തരത്തിൽ രൂപകൽപന ചെയ്തിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് മറ്റ് ഓർഗാനിസം വരുകയാണെകിൽ ആ ഓർഗാനിസത്തിനു താൽപ്പര്യമുള്ള മറ്റു ഓർഗാനിസത്തിനേക്കാൾ വളരെ വേഗത്തിൽ വളരാൻ കഴിയും മാത്രമല്ല ലഭ്യമായ ഭക്ഷണത്തിനായി ഓർഗാനിസം മത്സരിക്കുകയും ബയോ റിയാക്ടർ പരാജയപ്പെടുകയും ചെയ്യും അതിനെ ബയോ റിയാക്ടറിന്റെ കണ്ടാമിനേഷൻ എന്ന് വിളിക്കുന്നു അത് സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ നമുക്ക് ഒരു ക്ലീൻ സ്ലേറ്റ് ആവശ്യമാണ് എങ്ങനെ ഈ ക്ലീൻ സ്ലേറ്റ് നേടുന്നു എന്നത് വളരെ രസകരമാണ് എന്നിട്ട് നമുക്ക് ആമുഖ പ്രഭാഷണം നിർത്താം നമുക്ക് ഏകദേശം 9 മിനിറ്റ് ശേഷിക്കുന്നു ഈ ചർച്ചയ്ക്കൊപ്പം നമ്മൾ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കും ഇത് വളരെ രസകരമാണ് ഒരു ആശുപത്രിയിൽ മുറി അണുവിമുക്തമാക്കുന്നത് എങ്ങനെയാണ് ഒരു ബയോ റിയാക്ടറിൽ നിന്ന് എല്ലാ ഓർഗാനിസത്തിനെയും എങ്ങനെ നീക്കംചെയ്യും ഓർഗാനിസം എവടെ വേണമെകിലും ഉണ്ടാകാം Refer time 4850 അതായത് ഒരു ബയോറിയാക്ടറുടെ മുക്കിലും കോണിലും ഇത് ചെയ്യുന്നതിനുള്ള 3 പ്രധാന വഴികൾ ഇവിടെയുണ്ട് ഒന്ന് വളരെ ഉയർന്ന താപനില ഉപയോഗിക്കുക അതായത് ഒരു 120 121 ഡിഗ്രി ആയിരിക്കും അത് ഒരു 15 മിനിറ്റ് അത് ആർദ്രമായ അവസ്ഥയിൽ ഉപയോഗിക്കുന്നു ഒരു ഉയർന്ന താപനില ഉപയോഗിച്ച് ഒരു ക്ലീൻ സ്ലേറ്റ് നേടാൻ കഴിയും ഇത് ആവർത്തിച്ച് കാണിക്കുന്നു ഇത് നന്നായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കാം ദ്രാവകങ്ങൾ അല്ലെങ്കിൽ നീരാവി ഓപ്പറേഷൻ റൂമുകൾ അല്ലെങ്കിൽ ലാബുകൾ പോലുള്ള ഇടങ്ങൾ അണുവിമുക്തമാക്കുന്നതിന് ഇത് സാധാരണ ചെയ്യുന്നു ഉദാഹരണത്തിനു ലാബുകളിൽ മലിനീകരണം സംഭവിക്കുമ്പോൾ തുടർന്ന് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഓർഗാനിസത്തിനെ മലിനമാക്കുന്ന എല്ലാ ഓർഗാനിസത്തെയും നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഫോർമാലിൻ പരിഹാരമായി ഉപയോഗിക്കുക എന്നതാണ് അതിൽ പൊട്ടാസ്യം പെർമാംഗനെയ്റ്റ് ചേർക്കുന്നു അത് എക്സോതെർമിക് റിയാക്ഷന്നു കാരണമാകും അതോടൊപ്പം ഫോർമാൽഡിഹൈഡിന്റെയും യഥാർത്ഥത്തിൽ ഫോർമാൽഡിഹൈഡ് ആണ് നീരാവി ആയി പുറത്തു വരുന്നത് അത് വായുവിൽ ഉള്ള എല്ലാ കോശങ്ങളെയും കൊള്ളുന്നു ഇത് അപകടകരമാണ് അതിനാലാണ് ഒരു ലാബ് അണുവിമുക്തമാക്കുമ്പോൾ എല്ലായിടത്തും അറിയിപ്പുകൾ നൽകുന്നത് എല്ലാ വാതിലുകളും ടേപ്പ് കൊണ്ട് സീൽ ചെയ്തിരിക്കുന്നു ജനലുകളും പൂർണമായി സീൽ ചെയ്തിരിക്കുന്നു അതോടൊപ്പം ഈ ഫോർമാലിൻ ഉള്ള അലുമിനിയം ബോട്ട് പല ഇടങ്ങളിലും എല്ലാം സീൽ ചെയ്തു സ്വയം സുരഷിതമായി അവസാനത്തെ വാതിലും സീൽ ചെയ്യാൻ ഒരു മാർഗം കണ്ടുപിടിക്കുന്നു വാതിലുകൾ ഇതിനകം സീൽ ചെയ്തു കഴ്ഞ്ഞു ജാലകങ്ങളും ഇതിനകം സീൽ ചെയ്തു കഴ്ഞ്ഞിരിക്കുന്നു ഒരു വ്യക്തി ഈ പൊട്ടാസ്യം പെർമാംഗനെയ്റ്റ് പെല്ലറ്റ്സ് ഈ അലുമിനിയം ബോട്ടിൽ വെച്ചിരിക്കുന്നു വ്യക്തി ലാബിൽ നിന്നു വേഗം പുറത്തു വരുന്നു വാതിൽ സീൽ ചെയുന്നു നീരാവി എല്ലാ ഓർഗാനിസത്തിനെ കൊല്ലുന്നു ഒരു നീരാവിയും ലാബിന് പുറത്തോട്ട് പോകാൻ അനുവദിക്കുന്നില്ല അതോടൊപ്പം ലാബ് കുറച്ചു ദിവസത്തേക്ക് അടച്ചിരിക്കുകയും ചെയ്യുന്നു പിന്നെ നിങ്ങൾ പ്രവേശിച്ചാൽ ലാബിലെ രാസ ഗന്ധത്തിനൊപ്പം ശുചിത്വമോ ഓർഗാനിസതിന്റെ അഭാവമോ നമുക്ക് മണക്കാൻ കഴിയും അതിനാൽ ഇത് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള വളരെ സാധാരണമായ ഒരു പ്രക്രിയയാണ് ഈ സാഹചര്യത്തിൽ ഇത് ഫോർമാലിൻ ആയിരുന്നു നമുക്ക് 70 ശതമാനം എത്തനോൾ ഉപയോഗിച്ച് കയ്യിൽ ഉള്ള ഓർഗാനിസത്തിനെ നശിപ്പിക്കാം അതായത് നമ്മുടെ കയ്യുറയിൽ ജോലി സമയത്തു പറ്റി ചേരുന്ന ഓർഗനിസം അതായത് ലാബിന്റെ ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്കു മാറ്റുമ്പോൾ ഒകെ പറ്റി ചേരുന്നത് കൂടാതെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഗാമാ റേഡിയേഷൻ തുടങ്ങിയ റേഡിയേഷനുകൾ നമുക്ക് ഉപയോഗിക്കാം അവ ഉയർന്ന ഊർജ്ജ റേഡിയേഷൻസ് ആണ് അത് ഡിഎൻഎയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുകയും ഓർഗാനിസത്തിനെ കൊല്ലുകയും ചെയ്യും നിങ്ങൾക്ക് ഉയർന്ന താപനില ഉപയോഗിക്കാൻ കഴിയില്ലെന്കിൽ ഉദാഹരണത്തിന് നമ്മൾ താപനില സെൻസിറ്റീവ് ആയ പ്ലാസ്റ്റിക്ക് കൊണ്ട് ജോലി ചെയുമ്പോൾ ഉദാഹരണത്തിന് സിറിഞ്ച് പോലെ ഉള്ളവ അതിന് ഉയർന്ന താപനില പ്രക്രിയ ഉപയോഗിക്കാൻ കഴിയില്ല ഉയർന്ന താപനില പ്രക്രിയയെ നമ്മൾ ഓട്ടോക്ലേവിംഗ് എന്ന് വിളിക്കുന്നു ഇത് ലോഹത്തിൽ നിന്ന് നിർമ്മിച്ച ബയോ റിയാക്ടറുകൾ പോലുള്ള ലോഹ വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നു ഇത് ഒരു ചെറിയ ബയോ റിയാക്ടറാണെങ്കിൽ നമുക്ക് മുഴുവൻ ബയോ റിയാക്ടറേയും ഒരു ഓട്ടോക്ലേവ് എന്ന് വിളിക്കാവുന്ന ഒന്നിന്റെ ഉള്ളിൽ വെക്കാൻ കഴിയും അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അവസ്ഥകളിലേക്ക് എത്താൻ സഹായിക്കുന്നു 121 ഡിഗ്രി സി ചെറുതായി ഉയർന്ന മർദ്ദം നീരാവി ഈ കണ്ടിഷനിൽ മാത്രമേ നിലനിൽകുകയുള്ളു നിങ്ങൾ തെർമോ ഡൈനാമിക്സ് ഓർക്കുന്നുണ്ടെകിൽ ആ അവസ്ഥ ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ സൂക്ഷിക്കുന്നു പിന്നെ നമുക്ക് ഒരു അണുവിമുക്ത ഇടം നേടാൻ കഴിയും പിന്നെ ആ സ്ഥലം എടുക്കുകയും അത് അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കുകയും ചെയുന്നു പിന്നീട് ശരിയായ സമയത്ത് നമ്മുടെ താൽപ്പര്യത്തിന്നു അനുസരിച്ചു നമ്മൾ ഓർഗാനിസം ചേർക്കുക അങ്ങനെയാണ് ഓട്ടോക്ലേവിംഗ് നടത്തുന്നത് ബയോ റിയാക്ടറുകൾ വലുതാണെങ്കിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ശേഷിയുള്ള ബയോ റിയാക്ടറുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടർന്ന് അവസരത്തിന് അനുസരിച്ചു അതിന്റെ അണുനശീകരണം നടത്തുന്നു പിന്നെ സംവിധാനങ്ങളെ സമാനമായി ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ആ റിയാക്ടറുകൾ നീക്കാൻ കഴിയില്ല അതുപോലെ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ആകാനും ഞങ്ങൾ സൂചിപ്പിച്ച പോലെ അൾട്രാവയലറ്റ് ഗാമ റൈസ് എന്നിവ പോലുള്ള റേഡിയേഷനുകൾ ഓർഗാനിസം ചികിത്സിക്കുന്നതിനോ നശിപ്പിക്കാനോ ഉപയോഗിക്കുന്നു നശിപ്പിക്കാൻ ഉയർന്ന താപനിലയോ നശിപ്പിക്കാൻ രാസവസ്തുക്കളോ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അതിനാൽ ബയോപ്രൊസസ് ആരംഭിക്കുന്നതിനുള്ള ക്ലീൻ സ്ലേറ്റ് നേടാൻ ഉപയോഗിക്കുന്ന ചില സാധാരണ അണുനശീകരണ രീതികളാണ് അവ നമ്മുടെ സമയപരിധി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഏറെക്കുറെ ഈ mooc നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് ഒരു 10 മണിക്കൂർ mooc ആണ് ബയോറിയാക്ടറിൽ നമുക്ക് നോക്കാൻ കഴിയുന്ന രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു പക്ഷേ വളരെ അയഞ്ഞ രീതിയിൽ ഈ ഓർഗനൈസേഷൻ വളരെ വ്യത്യസ്തമാണ് എന്നിരുന്നാലും വിവിധ മെറ്റീരിയലുകളിലൂടെ കടന്നുപോകുമ്പോൾ അനുബന്ധ അധ്യായങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകും എല്ലാ മെറ്റീരിയലുകളും ഇല്ലായിരിക്കാം പക്ഷെ എന്താണ് ഉള്ളത് അതു ആ അധ്യായത്തിലോട് പോകുമ്പോൾ ഞാൻ നിങ്ങൾക് നൽകാം എല്ലാ ആഴ്ചയുടെയും അവസാനം നമുക്ക് സമർപ്പിക്കാൻ ചില അസ്സൈന്മെന്റ്സ് ഉണ്ടായിരിക്കും കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ എന്നാൽ പ്രോബ്ലം സോൾവിങ് കഴിവ് ഉണ്ടാകുന്നത് വളരെ നല്ലത് ആണ് അതായത് ക്ലോസ്ഡ് എൻഡഡ് പ്രോബ്ലം സോൾവിങ് നമ്മൾ വിശകലനം ചെയ്തു അപ്ലൈ ചെയ്തു ഉപയോഗപ്രദമായ ഫലം നേടുന്നു ഞാൻ അതിനായി ഒരുപക്ഷേ പ്രശ്നം ഒന്ന് പോസ് ചെയ്യും അത് പരിഹരിക്കാൻ ക്ലാസ്സിൽ സമയം നൽകും അതായത് ലെക്ചറിനു ശേഷം എന്നിട്ട് അതിന്റെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ കാണിക്കും നമുക്ക് അടുത്ത ക്ലാസിൽ വീണ്ടും കണ്ടുമുട്ടാം